ഈ സെഷനിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങൾ ടെസ്റ്റിംഗിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയങ്ങൾ കണ്ടിരുന്നു തുടർന്ന് ഞങ്ങൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് വിവിധ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ എന്നിവ നോക്കി തുടർന്ന് ഞങ്ങൾ ചില വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കി പ്രധാനമായും രണ്ട് തരം വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഒന്ന് കവറേജ് അധിഷ്ഠിതവും മറ്റൊന്ന് ഫോൾട്ട് അധിഷ്ഠിതവുമാണ് ഞങ്ങൾ കവറേജ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കാൻ തുടങ്ങി കവറേജ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കുകളിൽ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് അല്ലെങ്കിൽ ഡിസിഷൻ കവറേജ് വിവിധ കണ്ടിഷൻ കവറേജ് ടെക്നിക്കുകൾ എന്നിവ നോക്കി തുടർന്ന് ഞങ്ങൾ പാത്ത് ടെസ്റ്റിംഗും നോക്കി ഇന്ന് നമ്മൾ കുറച്ച് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കും നമുക്ക് ആരംഭിക്കാം പക്ഷേ അതിനുമുമ്പ് ഞങ്ങൾ നടത്തിയ മുൻ ചർച്ചകളെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നുവെന്ന് കാണാൻ ഞങ്ങൾ ഇഷ്ടപ്പെടും കവറേജ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം എന്താണ് ഇവിടെ കവറേജ് എന്താണ് കവർ ചെയ്തിരിക്കുന്നത് അതിനാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ധാരണ പരിശോധിക്കാനാകും ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് ഒരു കവറേജ് അധിഷ്ഠിത പരിശോധന അടിസ്ഥാനപരമായി ടെസ്റ്റ് എക്സിക്യൂഷൻ ചില പ്രോഗ്രാം ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ചില പ്രോഗ്രാം ഘടകങ്ങൾ നിർവ്വഹിക്കുന്നു ഞങ്ങൾ പരിഗണിക്കുന്ന പ്രോഗ്രാം ഘടകങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ആവാം കണ്ടിഷനുകൾ ആവാം കംപോണൻറ് കണ്ടിഷൻ ആവാം പാത്തുകൾ ആകാം ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം വിവിധ തരത്തിലുള്ള കണ്ടിഷൻ കവറേജ് എന്താണ് ഞങ്ങൾ ഇതുവരെ കണ്ട വിവിധ തരത്തിലുള്ള കവറേജ് പരിശോധനകൾ എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള കവറേജ് ടെക്നിക്കുകൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ദുർബലമായ സ്റ്റേറ്റ്മെൻറ് കവറേജ് ഞങ്ങൾ ചർച്ച ചെയ്തു പിന്നെ ഞങ്ങൾ ബ്രാഞ്ചും ഡിസിഷൻ കവറേജും നോക്കി ഞങ്ങൾ ബേസിക് കണ്ടിഷൻ കവറേജ് നോക്കി ഡിസിഷൻ കവറേജ് ഉപയോഗിച്ച് ബേസിക് കണ്ടിഷൻ നോക്കി മൾട്ടിപ്പിൾ കണ്ടിഷൻ കവറേജ് MCDC കവറേജ് പാത്ത് കവറേജ് എന്നിവ ഞങ്ങൾ നോക്കി ഇപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെയാണ് കവറേജ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധന നടത്തുന്നത് ടെസ്റ്ററിന് എന്താണ് ചെയ്യേണ്ടത് പ്രോഗ്രാം കൺട്രോൾ ഫ്ലോ ഗ്രാഫിനായി അദ്ദേഹം ഒരു ഗ്രാഫ് വികസിപ്പിക്കുകയും തുടർന്ന് ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടോ ഇത് നിസ്സാരമായ പ്രോഗ്രാമിന് മാത്രമേ പ്രോഗ്രാം ഘടകങ്ങളുടെ കവറേജിന് കാരണമാകുന്ന ടെസ്റ്റ് ഇൻപുട്ടുകൾ വികസിപ്പിക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു പ്രായോഗിക പ്രോഗ്രാമിനായി ഞങ്ങൾ ശരിക്കും കവറേജ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റ് സ്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്യുന്നില്ല ഞങ്ങൾ ടെസ്റ്റ് ഇൻപുട്ടുകളും റാൻഡം ടെസ്റ്റ് ഇൻപുട്ടുകളും നൽകുന്നു തുടർന്ന് കവറേജ് അളക്കുന്ന ഒരു ഉപകരണം ഞങ്ങളുടെ പക്കലുണ്ട് ആവശ്യമുള്ള കവറേജ് മെട്രിക് നേടുന്നതുവരെ ഞങ്ങൾ ഇൻപുട്ടുകൾ നൽകിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ മെട്രിക് 100 ശതമാനം സ്റ്റേറ്റ്മെന്റ് കവറേജ് 90 ശതമാനം പാത്ത് കവറേജ് തുടങ്ങിയവ ആകാം ഇപ്പോൾ അടുത്ത ചോദ്യം ഫോൾട്ട് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് തരം വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു കവറേജ് അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികതയാണ് ചില പ്രോഗ്രാം ഘടകങ്ങൾ കവർ ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ ഞങ്ങൾ ശ്രമിക്കുന്നു മറ്റ് തരത്തിലുള്ള വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് പോലെ ഞങ്ങൾ പ്രോഗ്രാമിൽ പ്രത്യേക തരം ഫോൾട്ട്കൾ അവതരിപ്പിച്ചു തുടർന്ന് ടെസ്റ്റ് കേസുകൾക്ക് അവ കണ്ടെത്താനാകുമോ എന്ന് പരിശോധിക്കും ടെസ്റ്റ് കേസുകൾക്ക് അവ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ കൂടുതൽ ടെസ്റ്റ് കേസുകൾ ചേർത്ത് ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ ശക്തിപ്പെടുത്തുന്നു അതിനാൽ അടിസ്ഥാന ആശയങ്ങൾ ഒഴികെ ഞങ്ങൾ ഇതുവരെ ഫോൾട്ട് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കുകളൊന്നും നോക്കിയിട്ടില്ല ഇന്ന് നമ്മൾ ഒരു ഫോൾട്ട് ബേസ്ഡ് പരിശോധനയായ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് നോക്കും ഇപ്പോൾ അടുത്ത ചോദ്യം ഒരു ഫോൾട്ട് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കിന്റെ ഉദാഹരണമാണ് എല്ലാവർക്കും ഉത്തരം നൽകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഫോൾട്ട് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഉദാഹരണത്തിൽ ഞങ്ങൾ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത വൈറ്റ് ബോക്സ് കവറേജ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കിന്റെ ചില സുപ്രധാന വശങ്ങൾ നമുക്ക് ഓർമ്മിക്കാം സാധ്യമായ ഏറ്റവും ശക്തമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എല്ലാ പാത്ത് കവറേജും എല്ലാ പാത്ത് കവറേജും എന്നത് ഒരു പ്രോഗ്രാംലെ എല്ലാ പാത്തുകളും കവർ ചെയ്യുന്നു എന്നാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ ലൂപ്പുകൾ ഉണ്ടാകുമ്പോൾ പാത്ത് കവറേജ് പ്രായോഗികമായ ഒരു ഘടകം ആയി കണക്കാക്കില്ല കാരണം പ്രോഗ്രാമിൽ ലൂപ്പുകളുണ്ടാവുമ്പോൾ വളരെ വലിയ പാത്തുകളുണ്ടാകാം ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പാത്തുകൾ ഉണ്ടായിരിക്കാം കൂടാതെ എല്ലാ പാത്ത് കവറേജും നേടുന്നത് പ്രായോഗികമായി അസാധ്യമാണ് തുടർന്ന് ഞങ്ങൾ ഏറ്റവും ദുർബലമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നോക്കി സ്റ്റേറ്റ്മെന്റ് കവറേജായ സാങ്കേതികത തുടർന്ന് സ്റ്റേറ്റ്മെന്റ് കവറേജിനെക്കാൾ ശക്തമായ ഒരു സാങ്കേതികതയായ ബ്രാഞ്ച് അല്ലെങ്കിൽ ഡിസിഷൻ കവറേജ് ഞങ്ങൾ പരിശോധിച്ചു ബേസിക് കണ്ടിഷൻ കവറേജ് ഞങ്ങൾ പരിശോധിച്ചു അവിടെ ഓരോ കംപോണൻറ് വ്യവസ്ഥയും അല്ലെങ്കിൽ ആറ്റോമിക് അവസ്ഥയും സത്യവും തെറ്റായ മൂല്യങ്ങളും അനുമാനിക്കാൻ ഉണ്ടാക്കുന്നു ഞങ്ങൾ ബ്രാഞ്ചും കണ്ടീഷൻ കവറേജും നോക്കിയിരുന്നു അല്ലെങ്കിൽ കണ്ടീഷൻ കവറേജ് ബ്രാഞ്ച് ഡിസിഷൻ കവറേജ് എന്നിവയേക്കാൾ ശക്തമാണ് ഞങ്ങൾ ബേസിക് കവറേജ് എന്ന് വിളിക്കുന്ന ബേസിക് പാത്ത് കവറേജ് നോക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു ചിലപ്പോൾ ഇത് സാഹിത്യത്തിൽ ഇൻഡിപെൻഡൻറ് പാത്ത് കവറേജ് എന്നും അറിയപ്പെടുന്നു തുടർന്ന് ഞങ്ങൾ MCDC കവറേജിനെക്കാൾ ശക്തമായ ഒന്നിലധികം കണ്ടിഷൻ കവറേജ് നോക്കി പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഒന്നിലധികം കണ്ടീഷൻ കവറേജ് ധാരാളം ടെസ്റ്റ് കേസുകൾക്ക് കാരണമാകും ഒരു കോമ്പൊസിറ്റ് കണ്ടിഷനിലോ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ് ലോ ഉള്ള ആറ്റോമിക് കണ്ടിഷനുകളുടെയോ കംപോണൻറ് കണ്ടിഷന്റെയോ എണ്ണം വലുതായിരിക്കുമ്പോൾ പത്ത് കംപോണൻറ് വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം കണ്ടിഷൻ കവറേജിനായി ഞങ്ങൾക്ക് 210 ടെസ്റ്റ് കേസുകൾ ഉണ്ടാകും കൂടാതെ കണ്ടീഷണൽ എക്സ്പ്രെഷനിൽ 20 അല്ലെങ്കിൽ 30 ആറ്റോമിക് കണ്ടിഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ധാരാളം ടെസ്റ്റ് കേസുകൾ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടെസ്റ്റ് കേസുകൾ എന്നിവ ഒന്നിലധികം കണ്ടിഷൻ കവറേജ് നേടാൻ ആവശ്യമാണ് അതിനാൽ ഒന്നിലധികം കണ്ടിഷൻ കവറേജ് പ്രായോഗിക ടെസ്റ്റിംഗ് ടെക്നിക്കുകളായി കണക്കാക്കില്ല സാധാരണയായി ആരും ഒന്നിലധികം കണ്ടിഷൻ കവറേജ് നേടുന്നതിന് ഒരു പ്രോഗ്രാം പരീക്ഷിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു എന്നാൽ സാധാരണയായി പ്രായോഗികമായി പ്രാധാന്യമുള്ളത് MCDC കവറേജും പാത്ത് കവറേജും ആണ് അതിനാൽ സാധാരണയായി ധാരാളം ഉപയോക്താക്കൾ വാണിജ്യപരമായി ഉപയോഗിക്കുന്നതിനോ ഉള്ള ഒരു പ്രോഗ്രാം തിരികെ നൽകുമ്പോൾ ടെസ്റ്റർ MCDC കവറേജും പാത്ത് കവറേജും എഡ്ജും രണ്ടും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇവ രണ്ടും കോംപ്ലിമെൻറ്ററി ടെസ്റ്റ് കേസുകൾ ആണെന്ന് ഈ ചിത്രത്തിൽ കാണാം ഞങ്ങൾ എന്താണ് ചെയ്തത് കോംപ്ലിമെൻറ്ററി ടെസ്റ്റിങ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് പാത്ത് കവറേജ് കൈവരിക്കുന്നത് ഞങ്ങൾ MCDC കവറേജ് നേടിയെന്ന് ഉറപ്പുവരുത്തുന്നില്ലെന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ ടെസ്റ്റ് സ്യൂട്ട് MCDC കവറേജ് കൈവരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പാത്ത് കവറേജ് നേടിയെന്ന് അർത്ഥമാക്കുന്നില്ലെന്നും ഞങ്ങൾ നേരത്തെ നിർവചിച്ചിരുന്നു അതിനാൽ സോഫ്റ്റ്വെയർ വ്യവസായത്തിന്റെ ഭൂരിഭാഗവും എന്ന നിലയിൽ ധാരാളം ഉപയോക്താക്കൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ രണ്ട് പ്രധാന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവർ അവരുടെ പ്രോഗ്രാം പരീക്ഷിക്കുന്നു MCDC ടെസ്റ്റിംഗ് പാത്ത് ടെസ്റ്റിംഗ് ഇപ്പോൾ നമുക്ക് ഡാറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സുപ്രധാന വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക് നോക്കാം ഇവിടെ ഡാറ്റാ ഫ്ലോ ടെസ്റ്റിംഗിൽ വേരിയബിളുകളുടെ ഡെഫിനിഷനും ഉപയോഗങ്ങളും ഉൾക്കൊള്ളുന്ന ടെസ്റ്റ് കേസുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നതാണ് പ്രധാന ആശയം അതിനാൽ ടെസ്റ്റ് കേസുകൾ ഡിഫയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫയിൻ ചെയ്യുന്ന സ്ഥാനങ്ങൾ യൂസർ സ്പെസിഫിക് വേരിയബിളുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഞങ്ങൾ പ്രോഗ്രാമിലൂടെയുള്ള പാത്തുകൾ നിർവ്വചിക്കുന്നു സ്പെസിഫിക് വേരിയബിളുകളുടെ ഡെഫിനിഷനും ഉപയോഗവും പ്രോഗ്രാമിലൂടെയുള്ള പാത്തുകളെ ഡിഫയിൻ ചെയ്യുന്നുവെന്ന് ഞാൻ ആവർത്തിക്കട്ടെ ഇവിടെ കൺട്രോൾ ഫ്ലോ ഗ്രാഫിൽ പാത്തുകൾ നിർവചിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ ചർച്ച ചെയ്ത പാത്ത് കവറേജിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ഫ്ലോ ഗ്രാഫ് കൺട്രോൾ ഫ്ലോ ഗ്രാഫിൽ പാത്തുകൾ നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഡാറ്റാ ഡെഫിനീഷനും ഉപയോഗങ്ങളും സംഭവിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാത്ത് ഡിഫയിൻ ചെയ്തു ഒരു ഉദാഹരണം നൽകാൻ നമുക്ക് ഈ C പ്രോഗ്രാം നോക്കാം ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ് 2 ൽ കാണാനാകുന്നതുപോലെ a ക്ക് 5 അസൈൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 വേരിയബിൾ a നിർവ്വചിക്കുന്നു തുടർന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 3 ഉണ്ട് അത് വേരിയബിൾ c സ്റ്റേറ്റ്മെന്റ് 4 ഉപയോഗിക്കുന്നു d യുടെ ഉപയോഗങ്ങളായി എന്നാൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് 5 നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേരിയബിൾ a ഉപയോഗിക്കുന്നു അതിനാൽ വേരിയബിൾ a യുടെ ഡെഫിനീഷൻ സ്റ്റേറ്റ്മെന്റ് 2 ൽ സംഭവിക്കുന്നു a എന്ന വേരിയബിൾ സ്റ്റേറ്റ്മെന്റ് 5 ൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 6 നോക്കാം സ്റ്റേറ്റ്മെന്റ് 6 ൽ RHS ൽ പ്രത്യക്ഷപ്പെടുന്നതിനൊപ്പം LHS ൽ a ദൃശ്യമാകുന്നതിനാൽ വേരിയബിൾ a യുടെ ഡെഫിനീഷനും നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 8 ൽ നമുക്ക് വീണ്ടും വേരിയബിൾ aയുടെ ഉപയോഗങ്ങളുണ്ട് അതിനാൽ ഇവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്നും ഞങ്ങൾ രണ്ട് സെറ്റുകൾ നിർവ്വചിക്കുന്നു ഒരു സെറ്റിനെ DEF S എന്ന് വിളിക്കുന്നു സ്റ്റേറ്റ്മെന്റ് നമ്പർ S ആണെങ്കിൽ ഞങ്ങൾ X ന്റെ എല്ലാ വേരിയബിളുകളുടെയും സെറ്റിനെ DEF S എന്ന് നിർവചിക്കുന്നു അത് വേരിയബിൾ X ന്റെ സെറ്റ് ആണ് X ഇൽ X ന്റ്റെ ഡെഫിനീഷനും സാധാരണയായി ഒരു വേരിയബിൾ ഡിഫയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്റും ഉണ്ടാവും അതിനാൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനീഷൻ സെറ്റ് സാധാരണയായി ഒരു വേരിയബിളായിരിക്കും അതേസമയം ഒരു സ്റ്റേറ്റ്മെന്റ് S ന്റെ ഉപയോഗങ്ങൾ നിരവധി വേരിയബിളുകളാകാം സ്റ്റേറ്റ്മെന്റ് നിരവധി വേരിയബിളുകൾ ഉപയോഗിച്ചേക്കാം അതിന് ഒരു മൂല്യം അസൈൻ ചെയ്യാനോ ഒരു വേരിയബിളിന്റെ മൂല്യം നിർവ്വചിക്കാനോ കഴിയും ഇപ്പോൾ നമുക്ക് ഈ ഉദാഹരണം നോക്കാം a b ന് തുല്യമാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ആണ് അതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാം സ്റ്റേറ്റ്മെൻറ് 1 ന്റ്റെ DEF സെറ്റ് a ആണ് സ്റ്റേറ്റ്മെൻറ് 1 ന്റ്റെ USES സെറ്റ് സെറ്റ് b ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം നോക്കാം അതിനാൽ എനിക്ക് DEF 2 എഴുതാൻ കഴിയുമായിരുന്നു കാരണം ഞാൻ അതിനെ നമ്പർ 2 എന്നു എഴുതിയിരിക്കുന്നു അതിനാൽ DEF സ്റ്റേറ്റ്മെന്റ് 2 ന്റെ സെറ്റ് a ആണ് അതിനാൽ ഇത് a എന്ന വേരിയബിളിനെ നിർവ്വചിക്കുന്നു കൂടാതെ സ്റ്റേറ്റ്മെന്റ് 2 ന്റെ USES a b എന്നിവ രണ്ടും ആണ് കാരണം a b എന്നിവ രണ്ടും ഉപയോഗിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു വേരിയബിൾ X ഒരു സ്റ്റേറ്റ്മെൻറ്റ് S1 ഇൽ ലൈവ് ആണെന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് Sഇൽ x നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേരിയബിൾ S1 S എന്നിവയ്ക്കിടയിൽ ലൈവ് ആണെന്നും X ന് കൂടുതൽ നിർവചനം ഇല്ല എന്നും പറയാം അതിനാൽ ഒരു സ്റ്റേറ്റ്മെന്റ് S ഒരു വേരിയബിൾ x ഒരു സ്റ്റേറ്റ്മെന്റ്റ് S ഇൽ നിർവചിച്ചിരിക്കുന്നത് മറ്റൊരു സ്റ്റേറ്റ്മെൻറ് S1 ൽ ലൈവ് ആവണമെങ്കിൽ ആ വേരിയബിളിന്റെ ഇന്റർമീഡിയറ്റ് ഡെഫിനീഷൻ ഇല്ലെങ്കിൽ ആണ് ഇപ്പോൾ ഒരു വേരിയബിൾ ലൈവ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഒരു ഉദാഹരണവുമായി ബന്ധപ്പെട്ട് നോക്കാം അതിനാൽ ഇത് a യുടെ നിർവചനമാണ് ഇത് a യുടെ ഉപയോഗമാണ് കൂടാതെ a യുടെ ഇന്റർവീനിങ് ഡെഫിനീഷൻ ഇല്ല അതിനാൽ a എന്ന വേരിയബിളിന്റെ നിർവ്വചനം സ്റ്റേറ്റ്മെന്റ് 5 ൽ ലൈവ് ആണ് കൂടാതെ ഇത് സ്റ്റേറ്റ്മെന്റ് 6 ൽ ലൈവ് ആണ് പക്ഷേ അത് കഴിഞ്ഞ് അത് ലൈവ് അല്ല 2 ലെ ഡെഫിനീഷൻ സ്റ്റേറ്റ്മെന്റ് 8 ൽ ലൈവ് അല്ല കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് 6 ൽ റീഡിഫയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ 6 ലെ a ന്റ്റെ ഡെഫിനീഷൻ സ്റ്റേറ്റ്മെന്റ് 8 ഇൽ ലൈവ് ആണ് അതിനാൽ 2 ൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് 5 ൽ ഡെഫിനീഷൻ ലൈവ് ആണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഒരു DU ചെയിൻ നിർവ്വചിക്കാം ഒരു DU ചെയിൻ എന്നത് ഒരു വേരിയബിളിന്റെ പേരും അത് നിർവ്വചിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ് ഉം ലൈവ് ആയ സ്റ്റേറ്റ്മെൻറ്ഉം അടങ്ങുന്ന ഒരു ട്രിപ്ലെറ്റ് ആണ് അതിനാൽ X എന്നത് S ന്റ്റെ DEF സെറ്റിലാണ് X എന്നത് S1 ന്റെ USES സെറ്റിലാണ് കൂടാതെ S നു ഇന്റർവീനിങ് ഡെഫിനീഷൻ ഇല്ല ക്ഷമിക്കണം S നും S1 നും ഇടയിൽ ഇതിനെ ഞങ്ങൾ DU ചെയിൻ എന്ന് വിളിക്കുന്നു പ്രോഗ്രാമിലെ എല്ലാ DU ചെയിനുകളും കവർ ചെയ്യണം എന്നതാണ് ഏറ്റവും ലളിതമായ ഡാറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് ഒരു വേരിയബിളിന്റെ ഡെഫിനീഷൻ ഉള്ളിടത്തെല്ലാം ആ വേരിയബിളിന്റെ ഉപയോഗങ്ങൾ ഒരു ടെസ്റ്റ് കേസ് ആയിരിക്കണം ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്കളും ഉൾക്കൊള്ളണം അതിനാൽ ഇത് ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഏറ്റവും ലളിതമായ ഡാറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് മറ്റ് ഡാറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് മാനദണ്ഡങ്ങൾ കൂടുതൽ വിപുലമായ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നാൽ ഞങ്ങൾ അവ ചർച്ച ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗിന്റെ അടിസ്ഥാന ആശയങ്ങളും DU ചെയിൻ കവറേജായ ഏറ്റവും ലളിതമായ ഡാറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് സാങ്കേതികവിദ്യയും നോക്കുന്നു അതിനാൽ DU ചെയിൻ കവറേജ് നേടുന്നതിന് ആവശ്യമായ ടെസ്റ്റ് കേസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ് നോക്കാം അവിടെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ് ബ്ലോക്ക് ആയ B1 വേരിയബിൾ a നെ ഡിഫയിൻ ചെയ്യുന്നുണ്ട് തുടർന്ന് മറ്റ് വേരിയബിളുകൾ ഉപയോഗിക്കുന്ന ചില കണ്ടിഷനുകൾ ഉണ്ട് a ബ്ലോക്ക് B4 എന്നിവ ഉപയോഗിക്കരുത് ഇവ വേരിയബിൾ a ഉപയോഗിക്കുന്നു ഇപ്പോൾ മറ്റ് വേരിയബിളുകളും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഉദാഹരണത്തിനായി നമുക്ക് DU ചെയിനുകൾ കണക്കുകൂട്ടാൻ കഴിയും a എന്നത് ബ്ലോക്ക് 1 ൽ നിർവ്വചിച്ചിട്ടുള്ള ഒരു വേരിയബിളാണ് ഇത് ബ്ലോക്ക് 5 ൽ ഉപയോഗിക്കുന്നു ഇത് ഒരു DU ചെയിൻ ഉണ്ടാക്കുന്നു ഇപ്പോൾ X സ്റ്റേറ്റ്മെന്റ് വ്യത്യസ്ത ബ്ലോക്കുകളിൽ ഉപയോഗിക്കുന്നുവെന്ന് കരുതുക ഞങ്ങൾക്ക് ധാരാളം ചെയ്നുകൾ ഉണ്ടാകും എന്നാൽ ഈ നിയന്ത്രണങ്ങൾ മറയ്ക്കാൻ ഞങ്ങൾക്ക് കുറച്ച് പാത്തുകൾ മാത്രമേ ആവശ്യമുള്ളൂ കാരണം വ്യത്യസ്ത കൺട്രോൾ ഫ്ലോ പാത്തുകളിൽ ഒന്നിലധികം ചെയിനുകൾ ഉണ്ടാകാം ഇപ്പോൾ നമുക്ക് മറ്റൊരു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് സാങ്കേതികത നോക്കാം അത് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ആണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഒരു കവറേജ് ടെസ്റ്റിംഗ് അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഇത് ഒരു ഫോൾട്ട് അധിഷ്ഠിത ടെസ്റ്റിംഗ് ടെക്നിക്കാണ് അവിടെ ഞങ്ങൾ പ്രോഗ്രാമിൽ ഒരു പ്രത്യേക തരം ഫോൾട്ട് അവതരിപ്പിക്കുന്നു ആ തരത്തിലുള്ള ഫോൾട്ട്നെതിരെ ടെസ്റ്റ് കേസുകൾ ഫലപ്രദമാണോ എന്ന് പരിശോധിക്കും ഇല്ലെങ്കിൽ ടെസ്റ്റ് സ്യൂട്ട് ശക്തിപ്പെടുത്തുന്നതിന് ടെസ്റ്റ് കേസ് അധിക ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കും അങ്ങനെ നിർദ്ദിഷ്ട തരം ഫോൾട്ട് കണ്ടെത്താനാകും ഇപ്പോൾ നമുക്ക് ഇവിടെ അടിസ്ഥാന ആശയം നോക്കാം മ്യൂട്ടേഷൻ ടെസ്റ്റിംഗിൽ ആദ്യം ഞങ്ങൾ ചില കവറേജ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു ചില കവറേജ് ടെക്നിക്കിന്റെ കവറേജ് നേടാൻ ഞങ്ങൾക്ക് ചില ടെസ്റ്റ് കേസുകൾ ഉണ്ട് അതിനാൽ പ്രാരംഭ ടെസ്റ്റ് സ്യൂട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത ചില വൈറ്റ് ബോക്സ് കവറേജ് ടെക്നിക് ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രാരംഭ പരിശോധന പൂർത്തിയായിക്കഴിഞ്ഞാൽ പ്രാരംഭ പരിശോധന mc dc ടെസ്റ്റിംഗ് ആകാം അല്ലെങ്കിൽ പാത്ത് ടെസ്റ്റിംഗ് ആകാം അല്ലെങ്കിൽ രണ്ടും ആകാം അല്ലെങ്കിൽ ഒരിക്കൽ ഇത് ഉപയോഗിച്ച് ഞങ്ങൾ പരീക്ഷിച്ചുകഴിഞ്ഞാൽ ചില തരം ബഗുകൾക്കെതിരെ ടെസ്റ്റ് ശരിക്കും ഫലപ്രദമാണോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് നടത്തുന്നു മ്യൂട്ടേഷൻ ടെസ്റ്റിംഗിന് പിന്നിലെ പ്രധാന ആശയം ഞങ്ങൾ പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ഒരു ബഗ് എന്നർത്ഥം വരുന്ന ഒരു പ്രോഗ്രാം മാറ്റുകയും ചെയ്യുക എന്നതാണ് അതിനാൽ പ്രോഗ്രാമർ എഴുതിയ യഥാർത്ഥ പ്രോഗ്രാം ഞങ്ങൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു നമ്മൾ ഒരു അരിതമെറ്റിക് ഓപ്പറേറ്ററെ പ്ലസ് ഇൽ നിന്ന് മൈനസ് ആയി മാറ്റിയേക്കാം അല്ലെങ്കിൽ ഒരു വേരിയബിളിന്റെ ടൈപ്പ് മാറ്റിയേക്കാം ഇവ ഒരു പ്രോഗ്രാമിലെ ചെറിയ മാറ്റങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ ചെറിയ മാറ്റവും യഥാർത്ഥത്തിൽ ഒരു ബഗ് ഒരു തരം ബഗ് ആണ് അതിനാൽ ഞങ്ങൾ ഒരു ബഗ് അവതരിപ്പിച്ചുവെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ നടത്തുന്നു ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കുകയും ഈ ബഗ് പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം ചില ടെസ്റ്റ് കേസുകൾ പ്രോഗ്രാമിൽ ഒരു ബഗ് അവതരിപ്പിച്ചതായി സൂചിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് അതിനാൽ അതാണ് ഇവിടെ പ്രധാന ആശയം ഒരു മ്യൂട്ടേഷൻ ചെയ്ത പ്രോഗ്രാം നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാമിലേക്ക് ഫോൾട്ട് ഇൻസേർട്ട് ചെയ്യുന്നു ഒരു മ്യൂട്ടേഷൻ ചെയ്ത പ്രോഗ്രാമിന് ലളിതമായ ഒരു ബഗ് ഉണ്ട് ഇപ്പോൾ ടെസ്റ്റ് കേസ് പ്രവർത്തിപ്പിക്കുന്നു കൂടാതെ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കാൻ ഇത് വളരെ ഉപയോഗം ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു റെക്കോർഡ് പ്ലേ ടൂൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ടെസ്റ്റ് കേസുകളും അനായാസമായി പ്രവർത്തിപ്പിക്കുകയും എല്ലാ ടെസ്റ്റ് കേസുകളും വിജയിക്കുമോ അല്ലെങ്കിൽ ചില ടെസ്റ്റ് കേസുകൾ പരാജയപ്പെട്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും അതിനാൽ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത പദങ്ങൾ ഒരു മ്യൂട്ടേഷൻ ചെയ്ത പ്രോഗ്രാം ആണ് മ്യൂട്ടേറ്റഡ് പ്രോഗ്രാം എന്നത് ഞങ്ങൾ മനപ്പൂർവ്വം ചില ചെറിയ തെറ്റുകൾ അവതരിപ്പിച്ച ഒന്നാണ് ഞങ്ങൾ പ്രയോഗിക്കുന്ന മാറ്റത്തിന്റെ തരം ഞങ്ങൾ അതിനെ ഒരു മ്യൂട്ടന്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മ്യൂട്ടേറ്റഡ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുകയും തുടർന്ന് ചില ടെസ്റ്റ് കേസുകൾ പരാജയപ്പെടുകയും ചെയ്താൽ ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ യഥാർത്ഥത്തിൽ നന്നായി പരിശോധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അവതരിപ്പിച്ച ബഗ് അവർ പിടികൂടി മ്യൂട്ടന്റ് ഡെഡ് ആയി എന്നു ഞങ്ങൾ പറയുന്നു ഇതിനർത്ഥം ഈ തരത്തിലുള്ള ബഗുകൾ ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നും ടെസ്റ്റ് കേസുകൾ കണ്ടെത്തുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പുതിയ ബഗുകൾ ശ്രമിച്ചേക്കാം എന്നാൽ എല്ലാ ടെസ്റ്റ് കേസുകളും വിജയിക്കുകയും ഞങ്ങൾ ഒരു ബഗ് അവതരിപ്പിച്ചുവെന്ന് അറിയുകയും ചെയ്താൽ ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ വേണ്ടത്ര നന്നല്ല ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ബഗ് പിടിക്കപ്പെടുന്നതുവരെ അധിക ടെസ്റ്റ് കേസുകൾ ചേർക്കണം അതിനാൽ ഒരു മ്യൂട്ടേറ്റ് ചെയ്ത പ്രോഗ്രാമിനായി ടെസ്റ്റ് കേസുകൾ വിജയിക്കുകയാണെങ്കിൽ മ്യൂട്ടന്റ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു അതാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജി തുടർന്ന് ഞങ്ങൾ അധിക ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്തു ഒരു ടെസ്റ്റ് കേസ് ബഗ് ഫ്ലാഗ് ചെയ്യുന്നത് പരാജയപ്പെടുന്നതുവരെ കൂടുതൽ ടെസ്റ്റ് കേസുകൾ ഉൾപ്പെടുത്തി അതിനാൽ ഈ മ്യൂട്ടേഷൻ ടെസ്റ്റിന്റെ ഒരു ഗുണം മ്യൂട്ടേറ്റ് ചെയ്ത പ്രോഗ്രാമിന്റെ ജനറേഷൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു കൂടാതെ എല്ലാ ടെസ്റ്റ് കേസുകളും പ്രവർത്തിപ്പിക്കുന്നു രണ്ടും വളരെ എളുപ്പത്തിൽ ഓട്ടോമേറ്റഡ് ആകാം അതിനാൽ ധാരാളം മ്യൂട്ടന്റുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും അതായത് നമുക്ക് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് മ്യൂട്ടേറ്റ് ചെയ്ത പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും അത് ഒരു പ്രശ്നമല്ല ഞങ്ങൾ അത് സ്വമേധയാ ചെയ്യേണ്ടതില്ല നമുക്ക് ഈ മ്യൂട്ടേറ്റ് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും ഒരു ഉപകരണത്തിലൂടെ സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ എല്ലാ ടെസ്റ്റ് കേസുകളും പ്രവർത്തിപ്പിക്കാനും ഇവ കടന്നുപോകുന്നുണ്ടോ പരാജയപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും കഴിയും അതിനാൽ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് സാങ്കേതികത ഓട്ടോമേഷനു അനുയോജ്യമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഈ സെഷൻ നിർത്തുകയും അടുത്ത സെഷനിൽ തുടരുകയും ചെയ്യും